കഴിഞ്ഞ ക്ലാസ്സിൽ മോഡ് 1 മോഡ് 2 അല്ലെങ്കിൽ മോഡ് 1 മോഡ് 2 എന്നിവയുടെ സംയോജന വിള്ളൽ ഉണ്ടാകുമ്പോൾ ഉള്ള സാധാരണ ഫോട്ടോലാസ്റ്റിക് ഫ്രിഞ്ച്കൾ പരിശോധിച്ചു നമ്മൾ അവ വീണ്ടും കാണും ഒപ്പം ഈ ഫ്രിഞ്ച്കളുടെ ഒരു സ്കെച്ച് നിർമ്മിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടു നിങ്ങളുടെ കുറിപ്പുകളിൽ ഈ ഫ്രിഞ്ച്കളുടെ ജ്യോമട്രി സവിശേഷതകളിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കുറച്ച് ഭാഗം പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കി ആ ചിത്രങ്ങൾ ഉചിതമായി എഡിറ്റു ചെയ്യാൻ കഴിയും മോഡ് 1 ലോഡിംഗിനായി നിങ്ങൾ കാണുന്ന ഫ്രിഞ്ച്കൾ ഇവയാണ് മോഡ് 2 നായി നിങ്ങൾ കാണുന്ന ഫ്രിഞ്ച്കളാണിത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ ഈ ഫ്രിഞ്ച്കൾ നോക്കി ഇത് മോഡ് വൺ ലോഡിംഗ് ആണോ അതോ മോഡ് രണ്ട് ലോഡിംഗ് ആണോ എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇവ സിഗ്മ 1 മൈനസ് സിഗ്മ 2 ന്റെ കോൺണ്ടറുകളാണെന്ന് ഞാൻ ഇതിനകം സൂചിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങൾ വികസിപ്പിക്കുമ്പോൾ പരീക്ഷണ ഫലവുമായി താരതമ്യപ്പെടുത്തി ആ സമവാക്യങ്ങളുടെ കൃത്യത പരിശോധിക്കാൻ കഴിയും വാസ്തവത്തിൽ നമ്മൾ അത് ചെയ്യും ഫ്രാക്ചർ മെക്കാനിക്സിന്റെ വികസനത്തിൽ ഇത് വളരെ അത്യന്താപേക്ഷിതമാണ് മാത്രമല്ല ഫോട്ടോഇലാസ്റ്റിക് ഫ്രിഞ്ച്കളുമായി താരതമ്യപ്പെടുത്തി ആളുകൾ അവരുടെ വിശകലന പരിഹാരം മെച്ചപ്പെടുത്തി ഫോട്ടോഇലാസ്റ്റിസിറ്റിക്ക് നിങ്ങൾക്ക് മോഡ് 1 മോഡ് 2 അല്ലെങ്കിൽ മോഡ് 1 മോഡ് 2 എന്നിവയുടെ സംയോജനം നൽകാൻ കഴിയും ഇതിന് മോഡ് 3 ഫ്രിഞ്ച്കൾ നൽകാൻ കഴിയില്ലെന്ന് നിങ്ങൾക്കറിയാം കാരണം അത് പ്ലെയിന് പുറത്താണ് മിക്സഡ് മോഡിന്റെ കാര്യത്തിൽ ഇത് മോഡ് 1 മോഡ് 2 എന്നിവയുടെ സംയോജനമാണ് ആദ്യത്തെ നിരീക്ഷണം ഫ്രിഞ്ച്കൾ ക്രാക്ക് ആക്സിസ്ന് സിമട്രിക്ക് അല്ല മാത്രമല്ല അവ മുകളിലും താഴെയുമായി വ്യത്യസ്ത കോണുകളിലേക്ക് ചരിഞ്ഞിരിക്കുന്നു പിന്നെ നമ്മൾ വിശദമായ പഠനം നടത്തി ഒരു സിമുലേറ്റഡ് പ്രഷർ വെസ്സലിലെ ഫ്രിഞ്ച് ഫീൽഡ് നോക്കി ആന്തരിക സ്ട്രെസ്ന് വിധേയമായ ഒരു ആനുലാർ വളയം നിങ്ങൾക്കുണ്ട് ക്രാക്ക് ടിപ്പിന് സമീപം നിരീക്ഷിക്കുന്ന ഫോട്ടോലാസ്റ്റിക് ഫ്രിഞ്ച്കളുടെ ജോമട്രി സവിശേഷതകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് നിങ്ങൾ ഇവിടെ കാണുന്ന ആദ്യത്തെ ഫ്രിഞ്ച് പിന്നോക്ക ചരിവുള്ളതും രണ്ടാമത്തേതും അല്പം പിന്നോട്ട് ചരിഞ്ഞതാണ് മൂന്നാമത്തെ ഫ്രിഞ്ച് മുന്നോട്ട് ചരിഞ്ഞതും നാലാമത്തെ ഫ്രിഞ്ച് ഏതാണ്ട് നേരെ ഉള്ളതും വിള്ളലിന്റെ അഗ്രത്തിനടുത്ത് നിങ്ങൾക്ക് ശരിക്കും ഡാറ്റയില്ല ഒരു പരീക്ഷണാത്മക വിദഗ്ദ്ധന് ഈ നിരീക്ഷണം വളരെ പ്രധാനമാണ് നിങ്ങൾക്ക് വിള്ളലിന് തൊട്ടടുത്ത് ഒരു വിള്ളൽ ഉണ്ടാകുമ്പോൾ നമ്മൾ നോക്കുന്നു സ്ട്രെസ് വളരെ ഉയർന്നതും നിങ്ങൾക്ക് പ്ലാസ്റ്റിക് രൂപഭേദം സംഭവിക്കുന്നതുമാണ് ക്രാക്ക് ടിപ്പിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പൂർണ്ണമായി പിടിച്ചെടുക്കാൻ നിങ്ങൾക്ക് ശരിയായ ഗണിത സമവാക്യങ്ങളില്ല ഒരു പരീക്ഷണാത്മക വീക്ഷണകോണിൽ നിന്ന് നിങ്ങൾക്ക് അടുത്ത് പോയി ഡാറ്റ ശേഖരിക്കാൻ കഴിയില്ല ക്രാക്ക് ടിപ്പിന് സമീപമുള്ള ഒരു പ്രദേശത്ത് നിന്ന് മാത്രമേ നിങ്ങൾ ഡാറ്റ ശേഖരിക്കാനാവൂ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർ കണക്കാക്കാൻ പരീക്ഷണത്തിൽ നിന്ന് ഡാറ്റ കണ്ടുപിടിക്കാനും പ്രോസസ്സ് ചെയ്യാനും നിങ്ങളുടെ അനലിറ്റിക്കൽ എക്സ്പ്രഷനിലെ എത്ര പദങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് എന്നതിന് ഒരു സൂചന നൽകുന്ന നിരവധി ജ്യോമട്രി സവിശേഷതകൾ ഇതിൽ നിങ്ങൾ കണ്ടെത്തുന്നു ആനുലാർ പ്ലേറ്റുകളിൽ ഒന്നിലധികം റേഡിയൽ വിള്ളലുകൾ നിങ്ങൾ പ്രായോഗിക പ്രശ്നങ്ങൾ നോക്കുമ്പോൾ അവയെല്ലാം പരിമിതമായ ജോമട്രിയാണ് അനലിറ്റിക്കൽ പരിഹാരം അനന്തമായ ജോമട്രിക്ക് മാത്രം നൽകുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവർത്തിച്ചുള്ള വിള്ളലുകൾ ഉണ്ട് അത്തരം നല്ല പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകത്തിനുള്ള പദപ്രയോഗങ്ങളുണ്ട് സ്ട്രെസ് കോൺസൺട്രേഷൻ സോണിലോ പരിമിതമായ ജോമട്രിയിലോ നിങ്ങൾക്ക് ഒരു വിള്ളൽ ഉണ്ടാകുമ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നത്തിന് നിങ്ങൾ ഒരു സംഖ്യാ സാങ്കേതികതയെയോ പരീക്ഷണാത്മക സാങ്കേതികതയെയോ ആശ്രയിക്കേണ്ടതുണ്ട് ഒരു പരീക്ഷണാത്മക സാങ്കേതികതയുടെ കാര്യത്തിൽ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിന് നിങ്ങൾ ഉചിതമായ സമവാക്യങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് അത് വളരെ പ്രാധാന്യമർഹിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ആന്തരിക അതിർത്തിയിൽ നിന്ന് പുറപ്പെടുന്ന വിള്ളലുകൾ റേഡിയൽ വിള്ളലുകൾ എന്നിവയും നമ്മൾ പരിശോധിച്ചിട്ടുണ്ട് സോളിഡ് മെക്കാനിക്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഗ്രാഹ്യത്തിൽ നിന്ന് ഇത് ഹൂപ്പ് സ്ട്രെസ്ന് വിധേയമായതിനാൽ അത് പ്രധാനമായും മോഡ് 1 ലോഡിംഗിലാണ് ഈ വിള്ളലുകളുടെ പ്രധാന ഇടപെടലുകളൊന്നുമില്ലെന്ന് നിങ്ങൾ നിരീക്ഷിച്ചു നിങ്ങൾക്ക് ഒന്നിലധികം വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ അവ വളരെ അകലെയാണെങ്കിൽ അവ ശരിക്കും ഇടപെടുന്നില്ല ഫ്രിഞ്ച്കൾ ഒരു സാധാരണ മോഡ് 1 ലോഡിംഗ് സാഹചര്യത്തെ ചിത്രീകരിക്കുന്നതായും നിങ്ങൾ കണ്ടു പ്രഷർ വെസ്സലിൻറെ സാങ്കേതികവിദ്യയിൽ അവർ വെസ്സലിൻറെ മർദ്ദം വഹിക്കുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ചു

ആന്തരിക അതിർത്തി വളരെയധികം സ്ട്രെസിലാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അതിനാൽ ആന്തരിക അതിർത്തിയിൽ നിന്ന് വിള്ളലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് ഉയർന്ന സമ്മർദ്ദത്തെ നേരിടാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ഓട്ടോഫ്രെറ്റേജ് പോലുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് ആന്തരിക അതിർത്തിയിൽ റസിഡ്യൂവൽ കംപ്രസ്സീവ് സ്ട്രെസ് ഉണ്ടാക്കുന്നു അതിനാൽ ആന്തരിക അതിർത്തിയിൽ എനിക്ക് റസിഡ്യൂവൽ കംപ്രസ്സീവ് സ്ട്രെസ് ഉണ്ടെങ്കിൽ ആന്തരിക അതിർത്തിയിൽ നിന്ന് വിള്ളലുകൾ വളരാനുള്ള സാധ്യത കുറയും പക്ഷേ ഈ ഓട്ടോഫ്രെറ്റേജ് എന്താണ് ചെയ്യുന്നത് ഇത് ബാഹ്യ അതിർത്തിയിൽ റസിഡ്യൂവൽ ടെൻസൈൽ സ്ട്രെസ് സൃഷ്ടിക്കും അതിനാൽ നിങ്ങൾ വെസ്സലിൽ സമ്മർദം ചെലുത്തുമ്പോൾ ഇത് ബാഹ്യ അതിർത്തിയിലെ റസിഡ്യൂവൽ ടെൻസൈൽ സ്ട്രെസ്സും ആയി ചേർന്ന് ബാഹ്യ അതിർത്തിയിൽ നിന്ന് പുറപ്പെടുന്ന വിള്ളലുകൾക്ക് കാരണമാകും ഇവിടെ ഒരു ഉദാഹരണമുണ്ട് ഇവിടെ നിരവധി വിള്ളലുകൾ ബാഹ്യ അതിർത്തിയിൽ ഇടുന്നു നിങ്ങൾക്ക് വ്യത്യസ്ത നീളത്തിലുള്ള വിള്ളലുകൾ ഉണ്ട് അവ ഒരു ആനുകാലികവും പാലിക്കുന്നില്ല ഇത് ക്രമരഹിതമായി നിരീക്ഷിക്കൽ ആണ് ചെയ്യുന്നത് വിള്ളലുകൾ തമ്മിൽ എന്തെങ്കിലും പ്രധാന ഇടപെടൽ ഉണ്ടോ സോളിഡ് മെക്കാനിക്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും ഈ വിള്ളലുകൾ മോഡ് 1 തരം ലോഡിംഗും അനുഭവിക്കുന്നു എന്നാൽ ഫ്രിഞ്ച് പാറ്റേണുകളിൽ നിങ്ങൾ എന്തെങ്കിലും വ്യത്യസ്തമായി കാണുന്നുണ്ടോ ഫ്രിഞ്ച്കൾ നന്നായി വികസിപ്പിച്ചെടുത്ത എല്ലാ ഫ്രിഞ്ച് പാറ്റേണുകളിലും നിങ്ങൾ ഒരു ഫ്രണ്ടൽ ലൂപ്പ് കണ്ടെത്തുന്നു ഞാൻ അതിനെ വലുതാക്കി കാണിക്കും അതിനാൽ നിങ്ങൾ ഇവിടെ കണ്ടെത്തുന്നത് ഒരു ഹ്രസ്വ വിള്ളലിൽ നമ്മൾ കണ്ട സവിശേഷതകളാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ചരിവുകളുണ്ട് അവ ക്രാക്ക് ആക്സിസിനു സിമട്രികളാണ് എന്നാൽ ഈ വിള്ളൽ ഒരു പ്രഷർ വെസൽ ഇൽ നിലനിൽക്കുന്നു മാത്രമല്ല ഈ പ്രദേശത്ത് സ്ട്രെസ് വളരെ കൂടുതലാണ് അതിനാൽ ക്രാക്ക് ടിപ്പ് ഒരു സ്ട്രെസ് കോൺസൺട്രേഷൻ സോണിലാണ് കൂടാതെ വിള്ളലും വളരെ നീളമുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രമുഖ ഫ്രണ്ടൽ ലൂപ്പ് ഉള്ളതായി നിങ്ങൾ കണ്ടെത്തുന്നു ഫോർവേർഡ് ടിൽറ്റഡ് ലൂപ്പുകൾക്ക് പുറമേ അത്തരം നിരവധി ലൂപ്പുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് പരീക്ഷണാത്മക ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിന് ഞാൻ ഒരു അനലിറ്റിക്കൽ എക്സ്പ്രഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്രതിഭാസത്തെ പ്രതിനിധീകരിക്കുന്നതിന് വിശകലന പദപ്രയോഗത്തിന് മതിയായ പദങ്ങൾ ഉണ്ടായിരിക്കണം പരീക്ഷണത്തിൽ നിന്ന് ഇത് പിടിച്ചെടുക്കാൻ ഇതിന് കഴിയണം അപ്പോൾ മാത്രമേ എനിക്ക് ഇത് പരീക്ഷണാത്മക വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഡാറ്റ റിഡക്ഷന് ഉപയോഗിക്കാൻ കഴിയൂ ഇത് വളരെ പ്രധാനമാണ് ഇതാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് ഓട്ടോഫ്രെറ്റേജ് ടെക്നിക്കുകൾക്ക് പുറം ഉപരിതലത്തിൽ അവശേഷിക്കുന്ന ടെൻസൈൽ സ്ട്രെസ് ഉണ്ടാക്കാൻ കഴിയും ഇത് ആന്തരിക സ്ട്രെസ് മൂലം ഉണ്ടാകുന്ന സ്ട്രെസ്മായി കൂടിച്ചേർന്ന് ബാഹ്യ ഉപരിതലത്തിൽ വിള്ളലുകൾ ഉണ്ടാകാൻ കാരണമാകും ഇതാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത് റേഡിയൽ വിള്ളലുകളുള്ള ഒരു ആനുലാർ പ്ലേറ്റിന്റെ പ്രശ്നം നിങ്ങൾ പല എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷനുകളിലും കണ്ടുവരുന്നു മെക്കാനിക്കൽ ഘടകങ്ങളായ ബ്ലേഡ് ഡിസ്ക് അസംബ്ലികൾ ഫ്ലൈ വീലുകൾ റെയിൽവേ ചക്രങ്ങൾ ക്ലച്ച് പ്ലേറ്റുകൾ എന്നിവയിൽ റേഡിയൽ വിള്ളലുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ ഈ വിഭാഗത്തിൽ വരുന്ന നിരവധി പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ട് കാരണം അവയെല്ലാം ഫൈനൈറ്റ് ബോഡി പ്രശ്നമാണ് പരീക്ഷണ ഫലങ്ങൾ വളരെ വിലപ്പെട്ടതാണ്

അത്തരം സന്ദർഭങ്ങളിൽ വിള്ളലുകൾ എങ്ങനെ രൂപപ്പെടുന്നു സെൻട്രിഫ്യൂഗൽ ലോഡിംഗും തെർമൽ ലോഡിംഗും വിള്ളലുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്നു അതിനാൽ ഇത് പ്രായോഗികമായി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ആന്തരിക അതിർത്തിയിൽ നിന്നോ പുറം അതിർത്തിയിൽ നിന്നോ പുറപ്പെടുന്ന റേഡിയൽ വിള്ളലുകളുള്ള ആനുലാർ പ്ലേറ്റ് നിങ്ങൾ മനസിലാക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിരവധി പ്രായോഗിക പ്രശ്നങ്ങൾ അർത്ഥവത്തായ രീതിയിൽ പരിഹരിക്കാനാകും കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ റഫറൻസുകളിൽ ചിലത് നോക്കാം 1997 ലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ഇത് ഫ്രാക്ചർ മെക്കാനിക്സ് സ്ട്രെസ് ഫീൽഡ് സമവാക്യങ്ങളിലെ ഉയർന്ന ഓർഡർ പദങ്ങൾ പുറത്തെടുത്തു ഇത് ഫോട്ടോഇലാസ്റ്റിക് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിന് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് റേഡിയൽ വിള്ളലുകൾ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു പേപ്പർ നിങ്ങൾക്ക് ഉണ്ട് ചാക്രിക സിമട്രി ഉപയോഗിച്ച് കട്ടിയുള്ള ആനുലാർ പ്ലേറ്റുകളിലെ സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകത്തെ വിലയിരുത്തുന്നതിനായി സംഖ്യാ പഠനങ്ങളും നടക്കുന്നു പുസ്തകങ്ങളും റഫറൻസുകളും ഫ്രാക്ചർ മെക്കാനിക്സിനെക്കുറിച്ചുള്ള ഈ അവലോകനത്തിന്റെ അവസാനത്തിൽ നമ്മൾ ഏറെക്കുറെ എത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം പുസ്തകങ്ങളുടെയും റഫറൻസുകളുടെയും ഒരു ശേഖരം ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നു പ്രൊഫസർ പ്രശാന്ത് കുമാറിന്റെ Prof Prasanth Kumar പുസ്തകം "എലമെന്റ്സ് ഓഫ് ഫ്രാക്ചർ മെക്കാനിക്സ്" വീലർ പബ്ലിഷിംഗ് ഇത് ആദ്യം പ്രസിദ്ധീകരിച്ചിരുന്നു ഇപ്പോൾ ടാറ്റ മക്ഗ്രോ ഹിൽ വഴി ഇത് ലഭ്യമാണ് ഇത് വളരെ നല്ല പുസ്തകമാണ് ആശയപരമായ വികാസത്തിന്റെയും ഗണിതശാസ്ത്രത്തിന്റെയും സന്തുലിതാവസ്ഥ ഇതിന് ഉണ്ട് ഇത് താങ്ങാനാവുന്നതാണ് നിങ്ങളുടെ സൌകര്യാർത്ഥം ഇത് ഒരു പാഠപുസ്തകമായി ഉൾപ്പെടുത്താൻ ഞാൻ നിങ്ങളോട് ശുപാർശചെയ്യുന്നു മറ്റു പല പുസ്തകങ്ങളും ഉണ്ട് സി ബാംഗ്ലൂരിൽ നിന്നുള്ള പ്രൊഫസർ സിംഹയുടെ Prof Simha പുസ്തകം ഇത് ആശയപരമായ വികാസത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഒപ്പം ഫ്രാക്ചർ മെക്കാനിക്സിന്റെ അടിസ്ഥാന തത്ത്വങ്ങൾ മനസ്സിലാക്കുന്നതിന് ഗണിതശാസ്ത്ര കാഠിന്യം ബോധപൂർവ്വം ഒഴിവാക്കുന്നു "എലിമെന്ററി എഞ്ചിനീയറിംഗ് ഫ്രാക്ചർ മെക്കാനിക്സ്" എന്ന വിഷയത്തിൽ ബ്രൂക്കിന്റെ വളരെ പ്രസിദ്ധമായ പുസ്തകം ഉണ്ട് ക്ലൂവർ അക്കാദമിക് പ്രസാധകരാണ് ഇത് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഇപ്പോൾ ഇത് സ്പ്രിംഗർ സയൻസ് ആൻഡ് ബിസിനസ് മീഡിയ ഏറ്റെടുത്തു ബ്രൂക്കിന്റെ മറ്റൊരു പ്രധാന പുസ്തകവും ഉണ്ട് "ദി പ്രാക്ടിക്കൽ യൂസ് ഓഫ് ഫ്രാക്ചർ മെക്കാനിക്സ്" അതിനാൽ ഈ റഫറൻസുകളിലെല്ലാം നിങ്ങൾ രചയിതാവിന്റെയും പ്രസാധകന്റെയും പ്രസിദ്ധീകരിച്ച വർഷത്തിന്റെയും പേര് എഴുതുക ഇത് ഈ റഫറൻസുകളുടെ എഴുത്ത് വേഗത്തിലാക്കും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഇന്റർനെറ്റിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന തലക്കെട്ട് കണ്ടെത്താനാവും ഗോട്ടോസ് എഴുതിയ മറ്റൊരു പുസ്തകം ആണ് "ഫ്രാക്ചർ മെക്കാനിക്സ് ആൻ ഇൻട്രൊഡക്ഷൻ" ഇവയിൽ ഓരോന്നും നിങ്ങൾക്ക് ഫ്രാക്ചർ മെക്കാനിക്സിന്റെ വ്യത്യസ്ത രുചികൾ നൽകുന്നു ഈ പുസ്തകങ്ങളുടെയെല്ലാം സംയോജനമാണ് ഞാൻ നൽകാൻ ശ്രമിച്ചത് എന്ന് നിങ്ങൾക്കറിയാം അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ച ആശയങ്ങൾ എന്തുതന്നെയായാലും ഗണിതശാസ്ത്ര വികാസത്തെയും ആശയങ്ങളെയും വിലമതിക്കുന്നതിന് അവ നിങ്ങൾക്ക് സൌകര്യപ്രദമായ രീതിയിൽ അവതരിപ്പിക്കുന്നു നമ്മൾ കൂടുതൽ ആശയങ്ങൾ കേൾക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എന്നാൽ നമ്മൾ ഉടൻ തന്നെ ഗണിതശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കും അവിടെ ഗണിതശാസ്ത്രം വളരെ സങ്കീർണ്ണമാണെന്ന് നിങ്ങൾ കണ്ടെത്തും

നമ്മൾ അത് ചെയ്യും നിങ്ങൾക്ക് മറ്റ് നിരവധി പുസ്തകങ്ങളും ഉണ്ട് ഇവയും പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട് ഹെല്ലന്റെ ഒരു പുസ്തകമുണ്ട് ഇത് "ഇൻട്രൊഡക്ഷൻ ടു ഫ്രാക്ചർ മെക്കാനിക്സ്" എന്നതിലാണ് ഇത് കൂടുതലായും ഗണിതശാസ്ത്രപരമാണ് നോട്ടിന്റെ ഒരു പുസ്തകമുണ്ട് മെഗുയിഡിന്റെ ഒരു പുസ്തകമുണ്ട് ഇത് കൂടുതലും പ്രായോഗിക പ്രയോഗങ്ങളിലാണ് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട "ഹാൻഡ്ബുക്ക് ഓൺ സ്ട്രെസ് ഇന്റെൻസിറ്റി ഫാക്ടർസ്" ഉണ്ട് നമ്മൾ ഫ്രാക്ചർ മെക്കാനിക്സ് ചർച്ചചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ജോമട്രിക്ക് സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകങ്ങൾ നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് പണ്ടുകാലത്ത് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഘടകങ്ങൾക്കായി സവിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം ഉണ്ടായിരുന്നു അത് വിവിധ പ്രശ്നങ്ങൾക്ക് സ്ട്രെസ് കോൺസൺട്രേഷൻ ഡാറ്റ നൽകി സമാനമായ രീതിയിൽ മുറകാമി "സ്ട്രെസ് ഇന്റൻസിറ്റി ഫാക്ടർ ഹാൻഡ്ബുക്ക്" പുറത്തിറക്കി ഇത് 1 2 വാല്യങ്ങളിൽ ലഭ്യമാണ് ഇത് ഞങ്ങളുടെ ലൈബ്രറിയിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകം അറിയേണ്ടതുണ്ടെങ്കിൽ അത് നോക്കാം നിങ്ങൾക്ക് അത് ഇല്ലെങ്കിൽ ഒരു സാംഖിക അല്ലെങ്കിൽ പരീക്ഷണാത്മക സമീപനത്തിനായി പോകുക ഒടുവിൽ നിങ്ങൾക്ക് ആൻഡേഴ്സന്റെ പുസ്തകം ഉണ്ട് ഇത് ഒരു വിജ്ഞാനകോശം പോലെയാണ് ഫ്രാക്ചർ മെക്കാനിക്സിലെ നിരവധി വിഷയങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നു ഇതും ലൈബ്രറിയിൽ ലഭ്യമാണ് ഇത് ഒരു റഫറൻസായി കൂടുതൽ ഉപയോഗിക്കാം എന്റെ അഭിപ്രായത്തിൽ ഒരു പാഠപുസ്തകത്തേക്കാൾ ഒരു റഫറൻസായി ഇത് മികച്ച പുസ്തകമായിരിക്കും വിള്ളൽ വളർച്ചയും ഫ്രാക്ചർ മെക്കാനിക്സും വിള്ളൽ വളർച്ചയെയും ഫ്രാക്ചർ സംവിധാനങ്ങളെയും കുറിച്ചുള്ള അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു ഫ്രാക്ചർ മെക്കാനിക്സിനെക്കുറിച്ചുള്ള വളരെ നീണ്ട അവലോകനത്തിന് ശേഷം വിള്ളൽ ഒരു പാർഷ്യൽ പരാജയം ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു പ്രവർത്തനവും പാരിസ്ഥിതിക സാഹചര്യങ്ങളും കാരണം ഒരു വിള്ളൽ വളരുകയും ക്രിട്ടിക്കൽ ആകുകയും ചെയ്യും ക്രിട്ടിക്കൽ ആയ ഒരു വിള്ളൽ ഫ്രാക്ചർ ഉണ്ടാക്കുകയും മെറ്റീരിയൽ വേർപെടലിന് കാരണമാവുകയും ചെയ്യും ഫ്രാക്ചർ മെക്കാനിക്സിന്റെ അവലോകനത്തിൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം വികസിപ്പിച്ചെടുത്തത് ഇതാണ് അതിനാൽ ആ അറിവിൽ നിന്നും നമുക്ക് ആരംഭിക്കാം വിള്ളലിന്റെ വളർച്ചയും ഫ്രാക്ചറും തമ്മിലുള്ള സൂക്ഷ്മമായ വ്യത്യാസം നമ്മൾ കണ്ടെത്തും വിള്ളൽ വളർച്ച മന്ദഗതിയിലുള്ള പ്രക്രിയയാണ് അതേസമയം ഫ്രാക്ചർ വളരെ വേഗതയുള്ള പ്രക്രിയയാണ് ഇത് വളരെ വളരെ വേഗത്തിൽ സംഭവിക്കുന്നു

ഈ ആനിമേഷനെ നമുക്ക് സൂക്ഷിച്ചു നോക്കാം ഒരു വിള്ളൽ വളർച്ച ഘട്ടത്തിനു ശേഷം ഒരു ഫ്രാക്ചർ ഉണ്ടായതായി ഇത് കാണിക്കുന്നു നിങ്ങൾ അത് ശ്രദ്ധാപൂർവ്വം കാണുക ഡൈ പെനട്രേഷൻ രീതി ഉപയോഗിക്കുമ്പോൾ പിങ്ക് നിറമുള്ള വിള്ളൽ വളർച്ചാ ഉപരിപ്ലെയിൻ നിങ്ങൾ കാണുന്നു വിള്ളൽ വളർന്നതിനുശേഷം ഈ മെറ്റീരിയൽ ഒടിഞ്ഞു നിങ്ങൾ ഇത് ശ്രദ്ധാപൂർവ്വം കാണുകയാണെങ്കിൽ ഇത് നാൽപത്തിയഞ്ച് ഡിഗ്രിയിലാണെന്ന് നിങ്ങൾ കാണും ഇതിനെ ഷിയർ ലിപ്പ് എന്ന് വിളിക്കുന്നു വിള്ളൽ വളർച്ചയുമായി ബന്ധപ്പെട്ട ചില സംവിധാനങ്ങളെ മനസ്സിലാക്കുന്നതിനു നമ്മൾ അത് വിശദമായി കാണും അധികം മുന്നോട്ട് പോകുന്നതിനുമുമ്പ് സ്ഥിരമായ ഒടിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിള്ളൽ വളർച്ച മന്ദഗതിയിലുള്ള പ്രക്രിയയാണെന്നും ഫ്രാക്ചർ വളരെ വേഗതയുള്ള പ്രക്രിയയാണെന്നും നമ്മൾ പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു പ്രതിഭാസമുണ്ട് പ്ലെയിൻ സ്ട്രെസ് അനുഭവിക്കുന്ന പ്ലേറ്റുകളുടെ കാര്യത്തിൽ സ്ഥിരമായ ഒടിവുണ്ട് എന്നിരുന്നാലും സ്ഥിരതയുള്ള ഒടിവിനെ ഉടൻതന്നെ അസ്ഥിരമായ ഫ്രാക്ചർ പിന്തുടരുന്നു ഗണിതശാസ്ത്ര വികാസത്തെ മനസ്സിലാക്കുന്നതിനായി ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല ആശയപരമായ അടിത്തറ വികസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വിള്ളൽ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാൽ വിള്ളൽ വളർച്ചയും ഫ്രാക്ചർ ഉം ഉണ്ട് ആളുകൾ സ്ഥിരമായ ഫ്രാക്ചർ നിരീക്ഷിച്ചിട്ടുണ്ട് നിങ്ങൾ തകർന്ന ഒരു മാതൃക നോക്കിയാൽ ഒരു ഷിയർ ലിപ്പുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു മാത്രമല്ല ഷിയർ ലിപ്പ് മനസിലാക്കാൻ കുറച്ച് സമയം ചെലവഴിക്കുന്നത് മൂല്യവത്താണ് ഇത് ഒരു പരമ്പരാഗത ടെൻഷൻ പരിശോധനയിൽ തന്നെ കാണപ്പെടുന്നു നെക്കിങ്ങിൽ ഷിയർ ലിപ്പ് നിങ്ങൾക്ക് ഇതിലേക്ക് നോക്കാം പരമ്പരാഗത ടെൻഷൻ ടെസ്റ്റിലേക്ക് നമുക്ക് മടങ്ങാം നിങ്ങൾക്ക് ഒരു മാതൃകയുണ്ട് അതിനെ വലിക്കുന്നു ആത്യന്തിക ടെൻസൈൽ ശക്തിയിലെത്തിയ ശേഷം അതിനു ഫ്രാക്ചർ ഉണ്ടാവുന്നു നെക്കിങ് ഉള്ളതായും മെറ്റീരിയൽ വേർപെട്ടതായും നിങ്ങൾ കാണുന്നു നെക്കിങ്ന് കാരണമാകുന്നത് എന്താണ് നെക്കിങ് എങ്ങനെ മാതൃകയാക്കാം വളരെ ലളിതമായ ഒരു മോഡലുണ്ട് ഞാൻ അത് കാണിക്കാൻ പോകുന്നു നെക്കിങ്ന്റെ കാര്യത്തിൽ ഇത് യഥാർത്ഥത്തിൽ ആന്തരിക ന്യൂനതയാണ് എവിടെ നെക്കിങ് ആരംഭിക്കും എന്ന് മാതൃകയുടെ നീളത്തിൽ നിർണ്ണയിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഒരു ആന്തരിക ന്യൂനതയുണ്ട് അത് നെക്കിങ്ന് കാരണമാകുന്നു ഈ ന്യൂനത വലുതാകുന്നു അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അത് ചുവപ്പിൽ കാണിച്ചിരിക്കുന്നു കുറച്ച് സമയത്തിന് ശേഷം നിങ്ങൾക്ക് 45 ഡിഗ്രിയിൽ ഒരു ഷിയർ പരാജയം സംഭവിക്കുന്നു അതിനാൽ മെറ്റീരിയൽ വേർപെടൽ മാതൃകയുടെ മധ്യഭാഗത്ത് നിന്ന് ആരംഭിച്ച് പുറത്തേക്ക് പോകുന്നു നിങ്ങൾക്ക് ഇരുവശത്തും ഒരു ഷിയർ ലിപ്പുണ്ട് ആനിമേഷൻ മുഴുവനായി നമ്മൾ കാണും അതിനാൽ നെക്കിങ് എങ്ങനെ കാണാമെന്നതിന് ഇത് സാധ്യമായ ഒരു വിശദീകരണം നൽകുന്നു ഈ സ്ലൈഡ് കാണിക്കുന്നത് ഇതാണ് ഒരു സിമുലേഷനിൽ മാതൃകയുടെ മധ്യഭാഗത്ത് നെക്കിങ് നടന്നിട്ടുണ്ടെന്ന് കാണിക്കുന്നു ഇത് പാടില്ല ഒരു ടെൻഷൻ പരിശോധനയിൽ ഉണ്ടായ ഒരു യഥാർത്ഥ മെറ്റീരിയൽ പരാജയത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നു നിങ്ങൾക്ക് ഒരു ഉദാഹരണമുണ്ട് നിങ്ങൾക്ക് മറ്റൊരുദാഹരണവും ഉണ്ട് ഇത് അലുമിനിയം മാതൃകയാണ് മൂന്നാമത്തെ ഉദാഹരണമുണ്ട് ഇത് സ്റ്റീൽ ആണ് ഇവ വ്യത്യസ്ത സമയങ്ങളിൽ ചെയ്യുന്നു ഈ മാതൃകകൾ കാണിക്കുന്നത് നെക്കിങ് സ്ഥാനം വ്യത്യസ്തമായിരിക്കും അതിനാൽ ഒരു സിമുലേറ്റഡ് ടെസ്റ്റ് മാതൃകയുടെ കാര്യത്തിൽ ഇത് കൃത്യമായി കേന്ദ്രത്തിലാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു മറുവശത്ത് ഈ മാതൃകയിൽ ഇത് ഏറെക്കുറെ കേന്ദ്രത്തിനോട് അടുത്താണ് ഇത് അല്പം മാറിയാണ് അതേസമയം ഇത് ഗ്രിപ്പിനോട് വളരെ അടുത്താണ് നെക്കിങ്ന് ശരിക്കും കാരണമാകുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടതിനാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട അവസ്ഥയിലാണ് കാരണം നിങ്ങൾക്ക് ആന്തരിക കുറവുകളുണ്ട്അത് നെക്കിങ് എവിടെയാണ് വരുന്നത് എന്ന് നിർണ്ണയിക്കുന്നു മാതൃകയുടെ നീളത്തിൽ ഇത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും നെക്കിങ്ന്റെ കാര്യത്തിലും ഷിയർ ലിപ്പ്നെ മനസ്സിലാക്കുക എന്നതാണ് എന്റെ ശ്രദ്ധ നമുക്ക് അത് പരിശോധിക്കാം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉള്ളത് ഒരു കപ്പ് കോൺ ഫ്രാക്ചർ ആണ് നിങ്ങൾക്ക് ഇവിടെ ഏറെക്കുറെ ഒരു പരന്ന ഭാഗം കാണാൻ കഴിയും അത് 45 ഡിഗ്രിയാണ് ഇത് എല്ലായിടത്തും ഉണ്ട് ഇതൊരു വൃത്താകൃതിയിലുള്ള മാതൃകയാണ് അതിനാൽ ഇത് ഒരു കപ്പ് പോലെ രൂപപ്പെടും കൂടാതെ നിങ്ങൾക്ക് ഒരു കോൺ ഉണ്ട് വാസ്തവത്തിൽ വിള്ളൽ വളർച്ചയ്ക്കോ ഒടിവുകൾക്കോ വ്യത്യസ്ത മോഡലുകൾ മനസിലാക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നിരവധി ആശയപരമായ വികാസത്തിനായി നമ്മൾ വീണ്ടും വീണ്ടും ഷിയർ ലിപ്പ്ലേക്ക് മടങ്ങും ഇത് അതിന്റെ ഒരു വശമാണ് നിങ്ങൾ കുറച്ച് സ്കെച്ച് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ മികച്ച വിശദാംശങ്ങളെല്ലാം പകർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കില്ല കുറഞ്ഞത് നിങ്ങൾ ഇവിടെ കാണുന്നതുപോലുള്ള ഒരു കോണിന്റെ രൂപവും ഒരു കപ്പും പകർത്താം പ്രാദേശികവൽക്കരിച്ച പ്ലാസ്റ്റിക് രൂപഭേദം നിങ്ങൾക്ക് കാണാം

ഒരേ മാതൃകയുടെ വ്യത്യസ്ത കാഴ്ചകളുണ്ട് നിങ്ങൾക്ക് മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയും ഉണ്ട് അതിനാൽ ഇത് നിങ്ങൾക്ക് ഒരു കപ്പും ഒരു കോണും ഉണ്ടെന്നും മനോഹരമായ ഒരു സൈഡ് വ്യൂ ഉം ഇത് കാണിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് നെക്കിങ് പ്രദേശം വളരെ വ്യക്തമായി കാണാം ഇത് ഒരു കപ്പ് കോൺ പരാജയമാണ് വാസ്തവത്തിൽ ഇത് ലബോറട്ടറിയിലെ വിവിധ വിദ്യാർത്ഥികൾ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് എടുത്തതാണ് ലഭ്യമായ മാതൃകകൾ എന്തുതന്നെയായാലും നമ്മൾ അവയെ ഒന്നിച്ചുചേർത്താൽ ഒരു ടെൻഷൻ ടെസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കപ്പ് കോൺ പരാജയം കാണാനാകുമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് പ്രധാനമായും ഒരു ഷിയർ ലിപ്പ് ഉണ്ട് ഫാറ്റിഗ്നും ഡക്റ്റൈൽ ഫ്രാക്ചർനും ഒരു മാതൃക വികസിപ്പിക്കുന്നതിന് നമ്മൾ അത് ഉപയോഗിക്കും ക്രാക്ക് ഗ്രോത്ത് മെക്കാനിസങ്ങൾ നമ്മൾ പരിശോധിക്കും നിങ്ങൾക്ക് ഫാറ്റിഗ് വളരെ പരിചിതമായിരിക്കും ചാക്രിക ലോഡിംഗ് കാരണമാണ് ഫാറ്റിഗ് ഉണ്ടാകുന്നത് ആളുകൾ വിള്ളൽ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം എല്ലാ വിള്ളലും ഫാറ്റിഗ് മൂലമാണെന്ന് ആളുകൾ ചിന്തിക്കുന്നു അതിനാൽ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഫാറ്റിഗ് ആണ് വിള്ളൽ വളർച്ചയ്ക്കുള്ള ഒരു സംവിധാനം അത് വ്യാപകമായി പ്രചാരത്തിലുണ്ട് നിങ്ങൾക്ക് ഒരു വിള്ളൽ വളർച്ച അനുഭവപ്പെടുമ്പോൾ അത് ഒരു ഫാറ്റിഗ് ക്രാക്ക് ആണ് എന്നതിന് ഒരു ദോഷവുമില്ല അത് ശരിയാണ് പക്ഷേ അത് ഏക സംവിധാനം അല്ല അതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത് സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗിലൂടെയും വിള്ളൽ വളരും ഇതിനെ ചുരുക്ക രൂപത്തിൽ എസ് ഇന്ന് പറയുന്നു ഇതിൽ എന്ത് സംഭവിക്കുന്നു ഇവിടെ ഒരു ആൾട്ടർനേറ്റിംഗ് സ്ട്രെസ് ഇല്ല പക്ഷേ നിങ്ങൾക്ക് സ്ഥിരമായ ഒരു സ്ട്രെസ് ഉണ്ട് പക്ഷേ മൊത്തത്തിലുള്ള മാതൃക വിരുദ്ധമായ അന്തരീക്ഷത്തിലാണ്

ഇത് വിരുദ്ധമായ പരിസ്ഥിതിയുടെയും സ്ഥിരമായ സ്ട്രെസ്ന്റെയും സംയോജനമാണ് ഇത് സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗിലേക്ക് നയിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു പ്രതിഭാസം സാധ്യമാണ് അതാണ് ക്രീപ്പ് ഇതിൽ നിങ്ങൾ ഉയർന്ന താപനിലയിൽ സ്ഥിരമായ സ്ട്രെസ് അനുഭവിക്കുന്നു പ്രായോഗികമായി ഇതിന്റെ സംയോജനമാണ് നിങ്ങൾക്ക് കണ്ടെത്താനാകുന്നത് വ്യക്തിപരമായി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫാറ്റിഗിൽ എന്ത് സംഭവിക്കുന്നു എസ്സിസിയിൽ എന്ത് സംഭവിക്കുന്നു ക്രീപ്പിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം പക്ഷേ പ്രായോഗികമായി നിങ്ങൾക്ക് ഇവയുടെ സംയോജനമുണ്ടാകാം നിങ്ങൾക്ക് കോറോഷൻ ഫാറ്റിഗ് ക്രീപ്പ് ഫാറ്റിഗ് എന്നിവ ഉണ്ടാകാം കോറോഷൻറെയും ഫാറ്റിഗ്ൻറെയും സംയോജനത്തെ നിങ്ങൾ കോറോഷൻ ഫാറ്റിഗ് എന്നും ക്രീപ്പ് ഫാറ്റിഗ് എന്നിവയുടെ സംയോജനത്തെ ക്രീപ്പ് ഫാറ്റിഗ് എന്നും വിളിക്കുന്നു നിങ്ങൾക്ക് ലിക്വിഡ് മെറ്റൽ എംബ്രിട്ടിൽമെൻറ് ഉണ്ടാകാം

വളരെയധികം വിള്ളൽ വളർച്ചാ സംവിധാനങ്ങൾ ഉണ്ടാകാം നമ്മൾ മനസിലാക്കേണ്ടതുണ്ട് ഘടനകളുടെ അധപതന സംവിധാനങ്ങൾ നിങ്ങൾ അറിയണമെന്ന് ഞാൻ ഇതിനകം സൂചിപ്പിച്ചു കേടുപാടുകൾ തീർക്കുന്ന രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് വളരെ പ്രധാനമാണ് അധപതന സംവിധാനങ്ങൾ നിങ്ങൾ മനസിലാക്കുന്നില്ലെങ്കിൽ ഉചിതമായ രീതിശാസ്ത്രങ്ങൾ വികസിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല വിള്ളൽ വളർച്ചാ സംവിധാനങ്ങൾ നമ്മൾ പരിശോധിച്ചു ഫ്രാക്ചർ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ പരിശോധിക്കും നിങ്ങൾക്ക് ബ്രിട്ടിൽ ഫ്രാക്ചർ അല്ലെങ്കിൽ ക്ലീവേജ് ഫ്രാക്ചർ ഉണ്ടാകാം അവ ഓരോന്നും നമ്മൾ വിശദമായി കാണും നിങ്ങൾക്ക് ഡക്റ്റൈൽ ഫ്രാക്ചർ ഉണ്ട് അതിനെ റപ്പ്ചർ എന്നും വിളിക്കുന്നു ഇവ ഓരോന്നും നമ്മൾ വിശദമായി കാണും ബ്രിട്ടിൽ ഫ്രാക്ചർ വളരെ വേഗത്തിലാണ് പരമ്പരാഗത വീക്ഷണകോണിൽ നിന്ന് ഡക്റ്റൈൽ ഫ്രാക്ചർ ഉം തുല്യ വേഗതയിലാണ് പക്ഷേ ബ്രിട്ടിൽ ഫ്രാക്ചർ ആയി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് മന്ദഗതിയിലാണ് ഫാറ്റിഗ്റ് ക്രാക്ക് വളർച്ച മോഡൽ വിള്ളൽ വളർച്ച നോക്കുമ്പോൾഫ്രാക്ചർ ബ്രിട്ടിൽ അല്ലെങ്കിൽ ഡക്റ്റൈൽ ഏതായാലും വളരെ വേഗതയേറിയ പ്രക്രിയയാണ് വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം അവ രണ്ടും വേഗത്തിലുള്ള പ്രക്രിയകളാണ് ബ്രിട്ടിൽ ഫ്രാക്ചർ ആയി നോക്കിയാൽ ഡക്റ്റൈൽ ഫ്രാക്ചർ അല്പം മന്ദഗതിയിലാണ് ആദ്യം നമ്മൾ ഫാറ്റിഗ് കാരണം ഒരു വിള്ളൽ എങ്ങനെ വളരുന്നുവെന്ന് മനസിലാക്കാൻ ശ്രമിക്കും ഇതിനുള്ള ഒരു മാതൃക നമ്മൾ വികസിപ്പിക്കും ഇംഗ്ലിസിന്റെ പരിഹാരം നോക്കിയ ശേഷം വളരെ കുറഞ്ഞ ലോഡുകളിൽ പോലും ഉയർന്ന സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉള്ളതിനാൽ ക്രാക്ക് ടിപ്പിൽ അമിതമായ പ്ലാസ്റ്റിക് രൂപഭേദം സംഭവിക്കുമെന്ന് നിങ്ങൾ സമ്മതിക്കും

ഫാറ്റിഗ് ക്രാക്ക് വളർച്ചയെ മാതൃകയാക്കുന്നതിനുള്ള ഘട്ടങ്ങളുടെ ഒരു ശ്രേണി ഞാൻ കാണിക്കാൻ പോകുന്നു ഈ ഘട്ടങ്ങൾ നിരീക്ഷിച്ചതിന് ശേഷം നമ്മൾ ഈ ആനിമേഷനിലേക്ക് പോയി ഒരു വിള്ളൽ വളരാൻ കാരണമെന്താണെന്ന് മനസിലാക്കുന്നു സ്ലൈഡിന്റെ ഈ ഭാഗത്ത് അവതരിപ്പിച്ചിരിക്കുന്ന ആശയങ്ങളിൽ ആദ്യം ശ്രദ്ധ ചെലുത്തുക ഇതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ടെൻഷൻ ടെസ്റ്റിന്റെ കാര്യത്തിൽ ഞാൻ ഷിയർ ലിപ്പ്ൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു നിങ്ങൾക്ക് ഒരു കപ്പും കോണും ഉണ്ട് ഇവിടെ പ്രധാനം നിങ്ങൾക്ക് 45 ഡിഗ്രിയിൽ ഒരു ഷിയർ ലിപ് ഉണ്ട് എന്നതാണ്

ഇപ്പോൾ എനിക്ക് ഒരു വിള്ളൽ ഉണ്ട് ലോഡ് പ്രയോഗിക്കുന്നതിനാൽ നിങ്ങൾക്ക് ക്രാക്ക് ടിപ്പിന് സമീപം പ്ലാസ്റ്റിക് രൂപഭേദം സംഭവിക്കും ഇത് ഷിയർ സ്ട്രെസ് മൂലം ആറ്റോമിക് പ്ലെയിനുകളുടെ സ്ലിപ്പിന് കാരണമാകും അതിനാൽ എന്താണ് സംഭവിക്കുക ഇത് വഴുതിപ്പോകുകയും നിങ്ങൾക്ക് വിള്ളലിന്റെ വിപുലീകരണം ഉണ്ടായിരിക്കുകയും ചെയ്യും അത്തരമൊരു പ്രതിഭാസം കോംപ്ലിമെന്ററി പ്ലെയിനിൽ സംഭവിക്കാം ലോഹത്തിലൂടെയുള്ള ഒരു വിള്ളൽ സിപ്പിംഗിന് വിപരീതമായി ഫാറ്റിഗ് കാരണം ഒരു വിള്ളലിന്റെ വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് എന്ന ആശയം കാണിക്കുന്നതിനാണ് എൻറെ ശ്രദ്ധ അത് വളരെ വേഗത്തിൽ നീങ്ങുമ്പോൾ അത് ഫ്രാക്ചർ ആണ് ആവർത്തിച്ചുള്ള ലോഡിംഗ് കാരണം ഒരു വിള്ളൽ എങ്ങനെ വളരുന്നുവെന്ന് വിശദീകരിക്കുന്ന ഒരു നല്ല മോഡലാണ് നമ്മൾ നോക്കുന്നത് അതിനാൽ ആദ്യമായി ക്രാക്ക് ടിപ്പിൽ പ്ലാസ്റ്റിക് രൂപഭേദം സംഭവിക്കുന്നു അത് മൂലം ആറ്റോമിക് പ്ലെയിനിൻറെ സ്ലിപ്പ് സംഭവിക്കുന്നു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം അതിനാൽ ഇത് കോപ്ലിമെൻററി പ്ലെയിനിൽ സംഭവിക്കാം അതാണ് അടുത്ത സ്കെച്ചിൽ കാണിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് ഇവിടെയുള്ളത് തുടർച്ചയായ സ്ലിപ്പ് കാരണം വിള്ളൽ ഇതുപോലൊരു ആകൃതിയിലാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നു ഇതിന്റെ ഭംഗിയുള്ള ഒരു രേഖാചിത്രം തയ്യാറാക്കുക ഫ്രാക്ചർ ഇൽ നിങ്ങൾ കാണുന്നതിനു വിപരീതമായി ഫാറ്റിഗ്ൻറെ കാര്യത്തിൽ ഒരു വിള്ളൽ എങ്ങനെ വളരുന്നുവെന്ന് ഇത് ഒരു ആശയപരമായ വിവരണം നൽകും ഇത് വരച്ച കഴിഞ്ഞവർ ഈ ആനിമേഷൻ ഒന്ന് നോക്കുക ഇത് 2 3 തവണ കാണുന്നത് നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തമാക്കും അതിനാൽ നിങ്ങൾ കണ്ടെത്തിയത് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള വിള്ളലാണ് കോപ്ലിമെൻററി പ്ലെയിനിൽ സ്ലിപ്പ് ഉള്ളപ്പോൾ അത് ഒരു രൂപമെടുത്തു എന്നിരുന്നാലും നിങ്ങൾക്ക് പ്ലാസ്റ്റിക് രൂപഭേദം ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം അതിനാൽ ഒന്നും മൂർച്ചയുള്ളതായി തുടരില്ല പ്ലാസ്റ്റിക് രൂപഭേദം അതിനെ വികൃതമാക്കും അതിനാൽ വിള്ളൽ മൂർച്ച ഇല്ലാത്തതാണെന്ന് നിങ്ങൾക്ക് ന്യായമായും പ്രതീക്ഷിക്കാം ഇംഗ്ലിസ് പരിഹാരത്തെക്കുറിച്ചുള്ള അറിവിൽ നിന്ന് നിങ്ങൾക്ക് മൂർച്ചയുള്ള വിള്ളൽ ഉണ്ടായിരുന്നു വളരെ ചെറിയ ബാഹ്യ ലോഡുകൾക്ക് പോലും സ്ട്രെസ് വളരെ ഉയർന്നതാണെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം

അതിനാൽ പ്ലാസ്റ്റിക് രൂപഭേദം സംഭവിക്കും ഈ പ്ലാസ്റ്റിക് രൂപഭേദം ഒരു സ്ലിപ്പിന് കാരണമാവുകയും കോംപ്ലിമെന്ററി പ്ലെയിനിൽ സ്ലിപ്പ് കണ്ടെത്തുകയും ചെയ്യുന്നു ക്രമേണ ഒരു വിള്ളൽ കുറച്ച് ദൂരം വളർന്നതായും പ്ലാസ്റ്റിക് രൂപഭേദം കാരണം അത് മൂർച്ചയില്ലാത്തതായും നിങ്ങൾ കണ്ടെത്തും അതിനാൽ ലോഡിംഗ് സമയത്ത് ഇതെല്ലാം സംഭവിക്കുന്നു ലോഡ് നീക്കംചെയ്യുമ്പോൾ നിങ്ങൾ സൈക്കിളിലൂടെ പോകുമ്പോൾ ക്രാക്ക് ടിപ്പ് മൂർച്ചയുള്ളതായിത്തീരും കാരണം നിങ്ങൾക്ക് ഒരു ചാക്രിക ലോഡിംഗ് ഉള്ളപ്പോൾ അത് മുകളിലേക്കും താഴേക്കും നീങ്ങുന്നു

ലോഡിംഗ് നീക്കംചെയ്യുമ്പോൾ വിള്ളൽ മൂർച്ചയുള്ളതായിത്തീരും തുടർന്നുള്ള ലോഡ് സൈക്കിളുകൾക്കായി മുഴുവൻ പ്രക്രിയയും ആവർത്തിക്കും ഞാൻ ഇവിടെ എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം ആദ്യം ഈ ആനിമേഷൻ കാണുക തുടർന്ന് ഞാൻ വലുതാക്കും നിങ്ങൾക്ക് ലോഡിംഗ് വ്യക്തമായി കാണാൻ കഴിയുമെന്നതിനാൽ ലോഡിംഗ് ഘട്ടത്തിൽ വിള്ളൽ മുന്നേറുകയും ലോഡിംഗ് ഘട്ടത്തിന്റെ അവസാനത്തിൽ അത് മൂർച്ചയില്ലാത്തതായി തീരുകയും ചെയ്യുന്നു അൺലോഡുചെയ്യുമ്പോൾ അത് മൂർച്ചയുള്ളതായിത്തീരും ആനിമേഷന്റെ ഈ സ്കെയിലിൽ ലോഡു ചെയ്യുന്നതും അൺലോഡു ചെയ്യുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും ക്രാക്ക് ടിപ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ കാണുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ അത് തിരിച്ചറിയണം ഇത് വളരെ വലുതാക്കിയ ചിത്രമാണ് ഇത് മൈക്രോണുകളുടെ തലത്തിലാണ് ഫാറ്റിഗ് വിള്ളലിന്റെ വളർച്ചയെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു നല്ല മാതൃക എന്താണെന്ന് വിശദീകരിക്കുന്നതിനായി നമ്മൾ ഇത് നിരവധി തവണ വലുതാക്കി ലോഡിംഗ് ഘട്ടത്തിൽ സ്ലിപ്പ് മൂലം വിള്ളൽ മുന്നേറുകയും സ്ലിപ്പ് കോപ്ലിമെൻററി പ്ലെയിനിൽ ആണ് അതിനാൽ അത് മൂർച്ചയുള്ളതായി മാറുന്നു പിന്നീട് അത് മൂർച്ചയില്ലാത്തതായിത്തീരുന്നു നിങ്ങൾ അൺലോഡുചെയ്യുമ്പോൾ വിള്ളൽ മൂർച്ചയുള്ളതായിത്തീർന്നു മുഴുവൻ പ്രക്രിയയും ആരംഭിക്കുന്നു മുഴുവൻ പ്രക്രിയയും വീണ്ടും ആരംഭിക്കുന്നു ഇവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത് ഓരോ സൈക്കിളിനുശേഷവും നിങ്ങൾ കാണുന്ന ഡെൽറ്റ a അല്പം വ്യത്യസ്തമായിരിക്കും നിരവധി സൈക്കിളുകൾക്ക് ശേഷം വിള്ളൽ വലുതായി ക്കൊണ്ടിരിക്കുന്നതിനാൽ സ്ട്രെസ് വളരെ ഉയർന്നതായിരിക്കും അതിനാൽ വിള്ളൽ കൂടുന്നതിനനുസരിച്ച് ഇൻക്രിമെന്റും വലുതായിത്തീരും ഇത് നിങ്ങൾക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്യാൻ എളുപ്പമാണ് ഒരു അസൈൻമെന്റ് ഷീറ്റിൽ നിങ്ങൾ മൈക്രോഗ്രാഫുകൾ പ്രോസസ്സ് ചെയ്ത് ക്രാക്ക് വളർച്ചാ നിരക്ക് കണ്ടെത്തും ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ പോകുന്ന മോഡൽ പറയുന്നത് ക്രാക്ക് ടിപ്പ് മൂർച്ചയില്ലാത്തതായി തീരുന്നു അൺലോഡുചെയ്യുമ്പോൾ അത് മൂർച്ചയുള്ളതായിത്തീരുന്നു ലോഡ് ചെയ്തുകൊണ്ട് വിള്ളൽ വളർന്നു അത് മൂർച്ചയില്ലാത്തതായി തീരുന്നു ഞാൻ അൺലോഡിംഗ് ചെയ്യുമ്പോൾ അത് മൂർച്ചയുള്ളതായിത്തീരുകയും ചെയ്യും സാമാന്യബുദ്ധി ഇത് യഥാർത്ഥ മെറ്റീരിയലിൽ ചില അവശിഷ്ടങ്ങൾ അവശേഷിപ്പിക്കണമെന്ന് പറയുന്നു കാരണം ഇത് ഓപ്പണിംഗ് ക്ലോസിംഗ് ഓപ്പണിംഗ് ക്ലോസിംഗ് ഓപ്പണിംഗ് ക്ലോസിംഗ് നടക്കുകയും മൂർച്ചയില്ലാത്തതാകുകയും മൂർച്ചയുള്ളതാവുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്നു വാസ്തവത്തിൽ അങ്ങനെയാണ് ആളുകൾ വിശദമായ പഠനം നടത്തി നിങ്ങളുടെ പക്കലുള്ള ഏതൊരു മോഡലും മനസിലാക്കിയിട്ടുണ്ട് തീർച്ചയായും അത്തരം മോഡലുകളിൽ ഉള്ള സ്ട്രൈയേഷൻസ് നോക്കി വിശദീകരിക്കാൻ കഴിയും നമ്മൾ അത് നോക്കുന്നു സ്ട്രൈയേഷൻസ് അപ്പോൾ എന്താണ് സ്ട്രൈയേഷൻസ് ചില സമയങ്ങളിൽ വിള്ളലിന്റെ അഗ്രം തിരിച്ചറിയുന്ന വളരെ ചെറിയ അടുപ്പമുള്ള കുന്നുകളാണ് സ്ട്രൈയേഷൻസ് നിങ്ങൾക്ക് ഒരു മാതൃകയിൽ ഒരു സാധാരണ സ്ട്രൈയേഷൻസ് കാണാൻ കഴിയും കടപ്പാട് ചുവടെ നൽകിയിരിക്കുന്നു നിങ്ങൾ സ്കെയിലും കാണണം ഇത് രണ്ട് മൈക്രോൺ ആണ് ഈ ഹ്രസ്വ ദൂരം രണ്ട് മൈക്രോൺ ആണ് അതിനാൽ രണ്ട് മൈക്രോണിനുള്ളിൽ നിങ്ങൾക്ക് 1 2 3 4 സ്ട്രൈയേഷൻസ് കാണാം വ്യക്തതയ്ക്കായി ഞാൻ ഈ ചിത്രം വലുതാക്കുകയും അതിന്റെ ഒരു രേഖാചിത്രം നിർമ്മിക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഈ ചെറു കുന്നുകൾ രൂപപ്പെടുന്നത് ആവർത്തിച്ചുള്ള തുറക്കലും അടയ്ക്കലും കാരണം ഈ കുന്നുകൾ രൂപം കൊള്ളുന്നു ഫാറ്റിഗ് മാതൃക വികസിപ്പിച്ചെടുത്തപ്പോൾ നമ്മൾ കണ്ടത് അതാണ് നമ്മൾക്ക് ആവർത്തിച്ചുള്ള തുറക്കലും അടയ്ക്കലും ഉണ്ട് നമുക്ക് അവയെ നഗ്നനേത്രങ്ങളിൽ കാണാൻ കഴിയില്ല വളരെ ഉയർന്ന മാഗ്നിഫിക്കേഷനുകളിൽ മാത്രമേ നിങ്ങൾ അവ കാണേകയുള്ളൂ അതിനാൽ മാതൃക ഈ രൂപത്തിൽ ആകുന്നു

വാസ്തവത്തിൽ എന്താണ് ലോഡിംഗ് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും ഇവിടെ ഒരു അമിത ലോഡ് ഉണ്ടാകാം ആവർത്തിക്കപ്പെടുന്ന ഓവർലോഡ് അതിനാൽ നിങ്ങൾ ഇവിടെ ഒരു ഷിഫ്റ്റ് കണ്ടെത്തി വളരെ നീണ്ട വിള്ളൽ വളർച്ചയുണ്ട് എല്ലാ തരത്തിലുള്ള വിശകലനങ്ങളും മെറ്റലർജിസ്റ്റുകൾ ചെയ്യുന്നു സ്ട്രൈയേഷൻസ് രൂപപ്പെടുന്നതായി നിങ്ങൾ കാണുന്നു ഫാറ്റിഗ് വിള്ളൽ വളർച്ചാ മാതൃകയിൽ നിന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്ട്രൈയേഷൻസ് രൂപപ്പെടുന്നതെന്ന് ഇപ്പോൾ ഒരു വിശദീകരണമുണ്ട് അവ വിശദീകരിക്കാവുന്നവയാണ് എല്ലാ വിള്ളൽ പ്രതലങ്ങളിലും നിങ്ങൾ സ്ട്രൈയേഷൻസ് കാണുന്നു മൈക്രോസ്കോപ്പിക് ലെവലിൽ പ്രധാനപ്പെട്ട മുദ്രയാണ് ഇത് പക്ഷേ അത് മെറ്റീരിയലിനെ ആശ്രയിച്ചിരിക്കുന്നു ഇത് മെറ്റീരിയലിന്റെ ഘടനയെ ആശ്രയിച്ചിരിക്കുന്നു സ്ട്രൈയേഷൻസ് കണ്ടില്ലെങ്കിൽ വിള്ളൽ വളർച്ച ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് പോയി വാദിക്കാൻ കഴിയില്ല വലിയതോതിൽ മിക്ക സാഹചര്യങ്ങളിലും നിങ്ങൾ സ്ട്രൈയേഷൻസ് കാണുന്നു മെറ്റീരിയലിന്റെ ഘടനയെ ആശ്രയിച്ച് ചില ഒഴിവാക്കലുകൾ ഉണ്ട് വ്യക്തമായ സ്ട്രൈയേഷൻസ് രൂപപ്പെട്ടിരിക്കില്ല ഇത് നിങ്ങൾ ഓർമ്മിക്കേണ്ടതാണ് ബീച്ച്മാർക്കുകൾ ഇപ്പോൾ ബീച്ച്മാർക്കുകൾ എന്നറിയപ്പെടുന്നതിലേക്ക് നമ്മൾ നീങ്ങുന്നു സ്ട്രൈയേഷൻസ്നു വിപരീതമായി ബീച്ച്മാർക്കുകൾ മാക്രോസ്കോപ്പിക് ആയി ദൃശ്യമാണ് അതിനാൽ നിങ്ങൾ ഒരു ബീച്ച് മാർക്കും ഒരു സ്ട്രൈഷനും തമ്മിൽ ആശയക്കുഴപ്പത്തിലാകരുത് ഫാറ്റിഗ് വിള്ളൽ വളർച്ച തടസ്സപ്പെടുമ്പോൾ ഈ ബീച്ച്മാർക്കുകൾ രൂപം കൊള്ളുന്നു നിങ്ങൾ മെഷീൻ നിരവധി മണിക്കൂർ പ്രവർത്തിപ്പിക്കുകയും ഒന്നോ രണ്ടോ ദിവസത്തേക്ക് നിർത്തുകയും പുനരാരംഭിക്കുകയും ചെയ്യുക എന്നിട്ട് കുറച്ച് ദിവസത്തേക്ക് പ്രവർത്തിപ്പിക്കുക തുടർന്ന് നിർത്തുക അതിനാൽ ഇതെല്ലാം മാതൃകയിൽ ഒരു മുദ്ര ചാർത്തുന്നു നിങ്ങൾക്ക് സൂക്ഷ്മപരിശോധന നടത്താം വൃക്ഷങ്ങളുടെ പ്രായമെന്തെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉള്ളിലുള്ള വൃത്തങ്ങളിൽ അവ കാണും അതിനാൽ നിങ്ങൾക്ക് പോയി മരത്തിന്റെ പ്രായം അറിയാം ഒരു ഘടന ബാഹ്യ ലോഡുകൾക്ക് വിധേയമാകുമ്പോഴും ഒരുതരം സ്വാഭാവിക പ്രതിഭാസം സംഭവിക്കുന്നു അത് നിഷ്ക്രിയമാണെന്ന് നമ്മൾ കരുതുന്നു അത് നിഷ്ക്രിയമല്ല ഇതിന് ഒരുതരം ബുദ്ധിയുമുണ്ട് ഇത് സ്വയം ലോഡ് ചെയ്ത രീതിയാണെന്ന് സ്വയം പ്രകടിപ്പിക്കുന്നു ഈ വിവരങ്ങളെല്ലാം എൻറെ കയ്യിൽ ഉണ്ട് അതിനാൽ മെറ്റലർജിസ്റ്റുകൾ അവരുടെ സൂക്ഷ്മപരിശോധന വിശകലനത്തിൽ ചെയ്യുന്നത് ഇതാണ് ഒരു സാധാരണ മെക്കാനിക്കൽ എഞ്ചിനീയർ സ്ട്രൈയേഷൻസ് എന്ന പദം പോലും കേട്ടിരിക്കില്ല എന്നാൽ ഫ്രാക്ചർ മെക്കാനിക്സിൽ ഒരു കോഴ്സ് എടുക്കാൻ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മെറ്റീരിയൽ സയൻസിൽ നിന്ന് ചില അടിസ്ഥാനങ്ങൾ ആവശ്യമാണ് ഇത് ഫ്രാക്ചർ മെക്കാനിക്സിനെ മികച്ച രീതിയിൽ മനസ്സിലാക്കാൻ സഹായിക്കും അതുകൊണ്ടാണ് സ്ട്രൈയേഷൻസ് എന്താണെന്ന് വിശദീകരിക്കാൻ ഞാൻ കുറച്ച് സമയം ചെലവഴിക്കുമെന്ന് ചിന്തിച്ചതിന്റെ കാരണം ഇപ്പോൾ നമ്മൾ ബീച്ച്മാർക്കുകളിലേക്ക് നോക്കുകയാണ് എനിക്ക് ഒരു നല്ല ചിത്രമുണ്ട് ഒരു ഷിയർ ലിപ്പ്ന്റെ പരാജയം ഇവിടെ വീണ്ടും കാണാം ഇത് എല്ലായ്പ്പോഴും 45 ഡിഗ്രിയിൽ കാണിക്കുന്നു നിങ്ങൾ അതിന്റെ ഒരു രേഖാചിത്രം തയ്യാറാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് ഒരു ഫാറ്റിഗ് ക്രാക്ക്ൻറെ ഉത്ഭവമുണ്ട് ഒരു ഫാറ്റിഗ് മേഖലയുണ്ട് ഒപ്പം ഒരു വിള്ളൽ മേഖലയുമുണ്ട് നിങ്ങൾ കണ്ടെത്തിയ ഫാറ്റിഗ് മേഖലയിൽ ക്ലാം ഷെല്ലുകൾ എന്നറിയപ്പെടുന്ന നിരവധി കോൺകേവ് മാർക്കുകൾ ഞാൻ കണ്ടെത്തി അവ ശരിക്കും അടയാളങ്ങൾ നിർത്തുന്നു അവയ്ക്ക് ബീച്ച്മാർക്കുകൾ എന്ന പേരും ഉണ്ട് ഭാഗം തുടർച്ചയായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലോ പ്രവർത്തനത്തിൽ ഹ്രസ്വമായ തടസ്സങ്ങളുണ്ടെങ്കിലോ ബീച്ച്മാർക്കുകൾ ഉണ്ടാകില്ല മെഷീന്റെ നിർത്തലും വീണ്ടും പ്രവർത്തിപ്പിക്കാനും കാരണം മാത്രമേ നിങ്ങൾ വ്യതിരിക്തമായ ബീച്ച്മാർക്കുകൾ കണ്ടെത്താനാവൂ എന്താണ് സ്ട്രൈയേഷൻസ് ഈ ബീച്ച്മാർക്കുകൾക്കിടയിൽ അവ ആയിരക്കണക്കിന് ഉണ്ടായിരിക്കാം ഒരു മൈക്രോസ്കോപ്പിന് കീഴിൽ മാത്രമേ അവ ദൃശ്യമാകൂ വളരെ ഉയർന്ന മാഗ്നിഫിക്കേഷനു കീഴിൽ മാത്രമേ അവ ദൃശ്യമാകൂ അതിനാൽ സ്ട്രൈയേഷൻസ് എന്താണെന്നും ബീച്ച്മാർക്കുകൾ എന്താണെന്നും നിങ്ങൾ വേർതിരിച്ചറിയണം ഇതാണ് വീണ്ടും ഊന്നിപ്പറയുന്നത് ബീച്ച്മാർക്കുകൾ സ്ട്രൈയേഷൻസുമായി തെറ്റിദ്ധരിക്കരുത് ഒരേ വിള്ളൽ പ്രതലത്തിലും അവ പതിവായി കാണപ്പെടുന്നുണ്ടെങ്കിലും ഓരോ ജോഡി മാക്രോസ്കോപ്പിക് ബീച്ച്മാർക്കുകൾക്കിടയിലും ആയിരക്കണക്കിന് മൈക്രോസ്കോപ്പിക് സ്ട്രൈയേഷൻസ് ഉണ്ടാകാം ഇതിന്റെ ഭംഗിയുള്ള ഒരു സ്കെച്ച് ഉണ്ടാക്കി സ്ട്രൈയേഷൻസും ബീച്ച്മാർക്കുകളും തമ്മിൽ വേർതിരിക്കുക അതിനാൽ നിങ്ങൾക്ക് ബീച്ച്മാർക്കുകൾക്കിടയിൽ ആയിരക്കണക്കിന് സ്ട്രൈയേഷൻസ് ഉണ്ടാകും അതിനാൽ ഫാറ്റിഗ് മൂലം വിള്ളൽ വളരുന്നതിനുള്ള സംവിധാനം എന്താണെന്ന് ഇത് വിശദീകരിക്കുന്നു ഇപ്പോൾ നമ്മൾ എസ്സിസി എന്ന് ചുരുക്കത്തിൽ പറഞ്ഞ സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗിലേക്ക് നീങ്ങുന്നു ടെൻസൈൽ സ്ട്രെസ് വിനാശകരമായ പരിതസ്ഥിതി എന്നിവയുടെ സംയോജിത സ്വാധീനത്തിൽ നിന്നാണ് എസ്സിസി ഉണ്ടാകുന്നതെന്ന് ഇതിനകം പറഞ്ഞു ടെൻസൈൽ സ്ട്രെസ് എവിടെയാണ് വരുന്നത് നിരവധി മെക്കാനിക്കൽ അസംബ്ലികളിൽ നിങ്ങൾക്ക് ഇൻറർഫറൻസ് ഫിറ്റുകൾ കാണാൻ കഴിയും ഈ ഇൻറർഫറൻസ് ഫിറ്റുകൾ പ്രാദേശിക ടെൻസൈൽ സ്ട്രെസ് സോണുകൾക്ക് കാരണമാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിപ്പം കൂടിയ പിൻ ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നത് ആവശ്യമായ ടെൻസൈൽ സ്ട്രെസ് നേരിട്ട് പ്രയോഗിച്ച സ്ട്രെസ്ൻറെ രൂപത്തിലോ അസംബ്ലിയിൽ ഉപയോഗിക്കുന്ന വലുപ്പത്തിലുള്ള പിൻ പോലുള്ള റസിഡ്യൂവൽ സ്ട്രെസ്ൻറെ രൂപത്തിലോ ആകാം ഇത് സാധാരണയായി അവഗണിക്കപ്പെടും നിങ്ങൾ ഒരു കമ്പനിയിലേക്ക് പോകുകയാണെങ്കിൽ അവർ ഒരുഭാഗം ഇൻറർഫറൻസ് വഴി ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഇൻറർഫറൻസ് ഫിറ്റ് സമീപത്ത് വളരെയധികം സ്ട്രെസ്ന് കാരണമാകും അവർ പോലും മനസ്സിലാക്കില്ല അവർ അത് അവഗണിക്കുന്നു അവർ വിശകലനം ചെയ്യുമ്പോൾ ബാഹ്യ ലോഡുകൾ മാത്രമേ എടുക്കുകയുള്ളൂ ഒടുവിൽ അവർ നിർമ്മിച്ച ഏത് ഘടകവും പ്രവർത്തനത്തിൽ പരാജയപ്പെടുന്നതായി അവർ കാണുന്നു തുടർന്ന് അവർ നമ്മുടെ അടുത്തേക്ക് മടങ്ങിവരുന്നു ഇൻറർഫറൻസ് സൃഷ്ടിച്ച റസിഡ്യൂവൽ സ്ട്രെസ്നെ നിങ്ങൾ അവഗണിച്ചുവെന്ന് നമ്മൾ അവരോട് പറയണം അതിനാൽ ഇൻറർഫറൻസ് ഫിറ്റുകൾ വളരെ പ്രധാനമാണ് നിങ്ങൾ അവ ശ്രദ്ധാപൂർവ്വം വിശകലനം ചെയ്യുകയും കൈകാര്യം ചെയ്യുകയും വേണം ഇൻറർഫറൻസ് ഫിറ്റ് കാരണം റസിഡ്യൂവൽ സ്ട്രെസ്ൻറെ പങ്ക് നിങ്ങൾ അവഗണിക്കരുത് നിങ്ങൾ എസ്സിസിയിൽ നോക്കുകയാണെങ്കിൽ അതിന് ഒരു മെറ്റീരിയൽ ആംഗിളും ഉണ്ട് കൃത്യമായ അലോയ് കോമ്പോസിഷൻ എന്താണ് അതുവഴി എസ്സിസിയിൽ നിന്ന് പുറത്തുവരാനുള്ള ഒരു മാർഗ്ഗവും ഇത് നൽകുന്നു എനിക്ക് ഒരു എസ്സിസി പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് പോയി അലോയ് കോമ്പോസിഷനുമായി വെറുതെ പ്രയോഗിക്കുവാൻ കഴിയുമോ അല്ലെങ്കിൽ എനിക്ക് പോയി മൈക്രോസ്ട്രക്ചറിനൊപ്പമോ ഹീറ്റ് ട്രീറ്റ്മെൻറ്നിനൊപ്പമോ വെറുതെ പ്രയോഗിക്കുവാൻ കഴിയുമോ അത്തരം രീതികളിലൂടെ എസ്സിസി മൂലമുണ്ടാകുന്ന വിള്ളൽ കുറയ്ക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വഴി കണ്ടെത്താൻ കഴിഞ്ഞേക്കും വാസ്തവത്തിൽ നമ്മൾ പിന്നീട് കാണാനിടയുള്ള ഒരു ഉദാഹരണം തന്നിരിക്കുന്ന ആപ്ലിക്കേഷനായി നിങ്ങൾ ഏത് തരം സ്റ്റീലുകളാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് വെളിപ്പെടുത്തും

തീർച്ചയായും മൈക്രോസ്ട്രക്ചർ ഹീറ്റ് ട്രീറ്റ്മെൻറ് അല്ലെങ്കിൽ അലോയ് കോമ്പോസിഷനുകൾക്ക് ഒരു പങ്കുണ്ട് ഇത് വീണ്ടും ഒരു വിള്ളൽ വളർച്ചയാണ് ഒപ്പം വിള്ളൽ വളർച്ച മന്ദഗതിയിലുള്ള പ്രക്രിയയാണ് ഇവിടെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷന്റെ വളരെ മികച്ച വലുതാക്കിയ ചിത്രം ഉണ്ട് വിള്ളലുകൾ ഗ്രേൻ അതിർത്തികൾ പിന്തുടരുന്ന ഒരു ഇൻകോണൽ ഹീറ്റ് എക്സ്ചേഞ്ചർ ട്യൂബിന്റെ ഇന്റർഗ്രാനുലർ എസ്സിസി ഇത് കാണിക്കുന്നു

ഇവിടെ കടപ്പാട് നൽകിയിട്ടുണ്ട് മെറ്റലർജിക്കൽ ടെക്നോളജീസ് ഇൻകോർപ്പറേറ്റഡ് ഇൽ നിന്നാണ് ഇത് ഞാൻ ഈ ചിത്രം വലുതാക്കും നിങ്ങൾ ഇതിൽ വ്യത്യസ്ത ഗ്രേൻസ് കാണും ഇതിൻറെ ലളിതമായ ഒരു രേഖാചിത്രം ഉണ്ടാക്കുക കട്ടിയുള്ള കറുപ്പായി നിങ്ങൾ കാണുന്നത് യഥാർത്ഥത്തിൽ വിള്ളലാണ് വിള്ളൽ എവിടെയാണ് വളർന്നത് ഇത് ഗ്രേൻ അതിർത്തിയിൽ വളർന്നു അതിനാൽ ഇത് ഇന്റർഗ്രാനുലാർ ക്രാക്ക് വളർച്ചയാണ് ക്രാക്ക് ടിപ്പ് എങ്ങനെ നീളുന്നു ദ്രവിക്കൽ പ്രവർത്തനം കാരണം ക്രാക്ക് ടിപ്പ് നീളുന്നു ഫാറ്റിഗ്ൽ മറ്റൊരു സംവിധാനം നമ്മൾ കണ്ടു എസ്സിസിക്ക് കാരണമാകുന്ന മൂന്ന് സംവിധാനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒന്ന് ആക്ടീവ് പാത്ത് ഡിസൊല്യൂഷൻ രണ്ടാമത്തേത് ഹൈഡ്രജൻ എംബ്രിട്ടിൽമെൻറ് മൂന്നാമത്തേത് ഫിലിം ഇൻഡ്യൂസ്ഡ് ക്ലീവേജ് അടുത്ത ക്ലാസിൽ ഈ സംവിധാനങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കും ഇന്ന് നമ്മൾ കണ്ടത് ഫോട്ടോലാസ്റ്റിക് ഫ്രിഞ്ച്ന്റെ ജ്യോമട്രി സവിശേഷതകളാണ് ഏത് തരത്തിലുള്ള ലോഡിംഗ് നിലവിലുണ്ടെന്നതിന്റെ ഒരു സൂചന നൽകുന്നു കൂടാതെ പരീക്ഷണാത്മക ഡാറ്റ പ്രോസസ്സിലൂടെ സ്ട്രെസ് ഇന്റെൻസിറ്റി ഘടകം കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ കഴിയുന്നത്ര പദങ്ങൾ ഉപയോഗിച്ച് ഉചിതമായ ഒരു വിശകലന സമവാക്യം ഞാൻ എടുക്കേണ്ടതുണ്ട് അതിനാൽ ഞാൻ പരീക്ഷണാത്മക ഡാറ്റ എടുക്കുന്ന പ്രദേശത്തിന്റെ വിശകലന മോഡലിംഗ് സാധുവാണ് പിന്നീട് നമ്മൾ ചില പുസ്തകങ്ങളും റഫറൻസുകളും നോക്കി തുടർന്ന് നമ്മൾ ഒരു ഷിയർ ലിപ്പ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിലേക്ക് നീങ്ങി ലളിതമായ ടെൻഷൻ പരിശോധനയിൽ കപ്പ് കോൺ ഫ്രാക്ചർ എങ്ങനെ കാണുന്നു ഫാറ്റിഗ് മൂലം ഒരു വിള്ളലിന്റെ വളർച്ചയെ മനസ്സിലാക്കുന്നതിന് നമ്മൾ ആ ധാരണ ഉപയോഗിക്കുന്നു സ്ട്രെസ് കോറോഷൻ ക്രാക്കിംഗ് എന്ന മറ്റൊരു ക്രാക്ക് ഗ്രോത്ത് മെക്കാനിസം നമ്മൾ നോക്കി